നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് ഈ മൊമെന്റുകളുടെ രീതി ശരിയാക്കാം അതിനാൽ എന്റെ ഓപ്പറേറ്റർ Lϕ എന്നത് f ന് തുല്യമാണെന്ന് ഓർക്കുക അത് എന്റെ ഓപ്പറേറ്റർ സമവാക്യമായിരുന്നു അതിനാൽ L എന്നത് തമാശയുള്ള L ആണ് അതിനാൽ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഡൊമെയ്നിനായി bn അടിസ്ഥാനം ഉപയോഗിക്കാൻ പോകുകയാണെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ ഞാൻ ϕ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഏത് ഫംഗ്ഷനാണെങ്കിലും അത് bn യുടെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കാൻ ശ്രമിക്കാം അതിനാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് അതാണ് അപ്പോൾ ഞാൻ ഇത് യഥാർത്ഥത്തിൽ എങ്ങനെ എഴുതും ഈ bn കൾ നമുക്ക് ജീവിതം ലളിതമാക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം അവ ആയിരിക്കണമെന്നില്ല പക്ഷേ ഇത് ഗണിതത്തെ എളുപ്പമാക്കുന്നു അതിനാൽ b അടിസ്ഥാനത്തിൽ ϕ എങ്ങനെ എഴുതാം എന്നതാണ് ചോദ്യം അതിനാൽ ഇത് ചില സ്ഥിരാങ്കങ്ങളാണ് എന്നാൽ എന്താണ് ആ സ്ഥിരാങ്കങ്ങൾ ആന്തരിക ഉൽപ്പന്നങ്ങൾ ശരിയാണ് അതിനാൽ ഞാൻ ϕ എഴുതും എനിക്ക് ചിലത് സ്ഥിരാങ്കങ്ങളെ എഴുതാം എന്ന് വിളിക്കാം അത് ഒരു അടിസ്ഥാനമായതിനാൽ എനിക്ക് എന്തെങ്കിലും പ്രകടിപ്പിക്കാൻ കഴിയണം ഈ അടിസ്ഥാനങ്ങളുടെ ഒരു രേഖീയ സംയോജനമായി പ്രവർത്തിക്കുന്നു ഇപ്പോൾ ഇവിടെ അറിയപ്പെടുന്നതും അറിയാത്തതും കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു വിദ്യാർത്ഥി bn bn അറിയപ്പെടുന്നു വിദ്യാർത്ഥി ϕn Phi n ശരിയല്ല അതിനാൽ ഒരു ഫംഗ്ഷനിൽ നിന്ന് ഞാൻ വലതുവശത്തുള്ള സ്കെയിലറുകളുടെ ഒരു കൂട്ടത്തിലേക്ക് പരിവർത്തനം ചെയ്തു അതിനാൽ ϕn കണ്ടെത്താൻ ഞാൻ ഇരുവശത്തും എന്തുചെയ്യണം എന്തിനൊപ്പം ഒരു ആന്തരിക ഉൽപ്പന്നം എടുക്കുക വിദ്യാർത്ഥി അടിസ്ഥാന പ്രവർത്തനം ഏത് അടിസ്ഥാന പ്രവർത്തനം ചിലത് അതിനാൽ ഞാൻ അത് രണ്ട് വശത്തും ബി എം ആർ ആന്തരിക ഉൽപ്പന്നത്തോടൊപ്പം എടുക്കുകയാണെങ്കിൽ അവ ഓർത്തോനോർമൽ ആയതിനാൽ ഏത് പദമാണ് നിലനിൽക്കുന്നത് വിദ്യാർത്ഥി Phi m ϕm അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്റെ ഫംഗ്ഷൻ ϕ എടുത്ത് ഈ അടിസ്ഥാന വെക്ടറുകളിൽ ഓരോന്നിനും ഒപ്പം പ്രൊജക്റ്റ് ചെയ്യുക ഈ പ്രൊജക്ഷനുകളുടെ ദൈർഘ്യം കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് എന്റെ പ്രശ്നം വലത്തേക്ക് കുറച്ചത് അതിനാൽ ഇപ്പോൾ അറിയാത്തവർ എന്റെ ϕm ആണ് അതുപോലെ റേഞ്ചിലുള്ള f എന്നതിന് ആ സ്പേസ് അടിസ്ഥാന വെക്ടറുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് അത് എഴുതാം എന്ന് പറയാം അതിനാൽ എനിക്ക് ഇതിനെ fntn എന്ന് വിളിക്കാം fn എന്നത് ftn ആയി നൽകപ്പെടും അതിനാൽ വളരെ സങ്കീർണ്ണമായ ഒന്നും അറിയില്ല വിദ്യാർത്ഥി fn fn അറിയുന്നത് നന്നായിരിക്കും കാരണം നമ്മൾ f അറിയപ്പെടുന്നത് പ്രശ്നത്തിൽ നൽകിയിരിക്കുന്നു അത് അറിയപ്പെടുന്ന വലതുഭാഗമാണ് അതിനാൽ f അറിയാമെങ്കിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും അടിസ്ഥാന ഫംഗ്ഷനിലെ അതിന്റെ പ്രൊജക്ഷനും ശരിയാണ് അതിനാൽ അജ്ഞാതമായത് ആരാണ് വിദ്യാർത്ഥി ϕn ϕn ഉം അറിയപ്പെടുന്നതും നമുക്ക് അറിയാവുന്നവയാണ് നമുക്കറിയാവുന്ന tn ഉണ്ട് നമുക്കറിയാവുന്ന fn ഉണ്ട് അതിനാൽ അറിയാവുന്നത് അജ്ഞാതമായത് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് വളരെ വ്യക്തമായിരിക്കണം അപ്പോൾ ഈ പ്രശ്നത്തിൽ നമ്മൾ എന്താണ് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കൽ എനിക്ക് ϕn s ലഭിച്ചാൽ എനിക്ക് എങ്ങനെ ϕ ലഭിക്കും എന്റെ ϕ എനിക്ക് തിരികെ നൽകുന്ന ഈ സമവാക്യത്തിലേക്ക് ഇത് തിരികെ നൽകുക അതാണ് എനിക്ക് താൽപ്പര്യമുള്ളത് ഈ ഓപ്പറേറ്റർ സമവാക്യം ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എന്റെ ലക്ഷ്യം ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്ന ϕ കണ്ടെത്തുക എന്നതായിരുന്നു ഇപ്പോൾ എന്റെ ഓപ്പറേറ്റർ സമവാക്യത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ സമവാക്യങ്ങളുടെ ഒരു സിസ്റ്റം ലഭിക്കും അതാണ് ചോദ്യം അതിനാൽ ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എഴുതിയാൽ എനിക്ക് എന്റെ ഓപ്പറേറ്റർ എൽ ഉണ്ട് ഇപ്പോൾ ഫൈ ഈ അളവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ എഴുതാൻ പോകുന്നു അതിനാൽ ആണ് ഇപ്പോൾ നിമിഷങ്ങളുടെ രീതി എന്താണ് നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ അത് പറയുന്നത് ഇത് പരിഹരിക്കുന്നതിന് ϕn എന്നതിനുള്ള സമവാക്യങ്ങളുടെ ഒരു സംവിധാനം ലഭിക്കുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ ϕn ഒരു സംഖ്യയായതിനാൽ L എന്തായാലും അകത്തേക്ക് പോകും അതിനാൽ ഇത് ഇവിടെ അകത്തേക്ക് പോകും അതിനാൽ നിങ്ങൾക്ക് ഇത് എഴുതണമെങ്കിൽ ഇത് മാറും എനിക്ക് ഇത് സംഗ്രഹം ആയി എഴുതാം L പോകുന്നു ഇപ്പോൾ അത് അറിയപ്പെടുന്ന അടിസ്ഥാന പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്നു എന്നാൽ എനിക്ക് ഇത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു സമവാക്യ സംവിധാനം ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഇതുവരെ ഒരു സമവാക്യ വ്യവസ്ഥ പോലെ തോന്നുന്നില്ല n വേരിയബിളുകളിൽ എനിക്ക് n സമവാക്യങ്ങൾ ഉണ്ടോ ϕn കൾ ഏതാണെന്ന് എനിക്ക് ഉറപ്പായും അറിയില്ല പക്ഷേ അവയിൽ എനിക്ക് n സമവാക്യങ്ങൾ ഇല്ല അപ്പോൾ എങ്ങനെ ഞാൻ ആന്തരിക ഉൽപ്പന്നം എന്താണ് ചെയ്യേണ്ടത് അതിനാൽ അത് വളരെ നല്ല നിർദ്ദേശമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ സമവാക്യത്തിൽ ഞാൻ ഏതെങ്കിലും t ഉപയോഗിച്ച് ഇരുവശത്തുമുള്ള ഒരു ഇന്നർ പ്രോഡക്ട് എടുത്താൽ എന്ത് ചെയ്യും അതിനാൽ നമുക്ക് tm എടുക്കാം അതിനാൽ ഞാൻ ഇപ്പോൾ പറയുന്നത് മുഴുവൻ സമവാക്യത്തിന്റെയും tm ഇന്നർ പ്രോഡക്ട് മുഴുവൻ സമവാക്യവും ഇവിടെ അവസാനിച്ചു ഏത് സമവാക്യം ഈ സമവാക്യം മുഴുവൻ അപ്പോൾ അത് എന്തായിത്തീരും ആദ്യ പദം അങ്ങനെ ആകും സംഗ്രഹം ആയി തുടരും ഒപ്പം Lbn തുല്യമാണ് ഇപ്പോൾ വലതു വശം വരുന്നു ഇവിടെ നിന്ന് എന്ത് നിലനിൽക്കും t കൾ യഥാർത്ഥത്തിൽ ഓർത്തോഗണൽ ആയതിനാൽ ഒരു പദം മാത്രം അപ്പോൾ ഇപ്പോൾ എന്താണ് ഈ സമവാക്യം ഇത് അറിയാവുന്നതോ അറിയാത്തതോ ആയ എത്രയെണ്ണം എന്നതിനെ കുറിച്ചുള്ള ഒരു സംഗ്രഹം ഇവിടെയുണ്ട് അതിന്റെ പൂർണ്ണമായി അറിയാവുന്ന ശരിയാണ് ഞാൻ t b തിരഞ്ഞെടുത്തുവെന്നും L എനിക്ക് നൽകിയിട്ടുണ്ടെന്നും എനിക്കറിയാം അപ്പോൾ ഇതോടൊപ്പമുള്ളത് എന്താണെന്ന് പൂർണ്ണമായി അറിയാമോ അജ്ഞാതമായ എന്തോ ഒന്ന് ϕ ആണ് വലതുവശത്തെ കാര്യമോ വിദ്യാർത്ഥി അറിയപ്പെടുന്നത് ശരിയാണ് എനിക്ക് എന്താണ് ലഭിച്ചത് എനിക്ക് ഒരു സമവാക്യം n വേരിയബിളുകൾ ശരിയാണ് എനിക്ക് ഈ പ്രക്രിയ എത്ര തവണ ആവർത്തിക്കാനാകും എനിക്ക് ഈ N പ്രാവശ്യം ഓരോന്നിനും ഓരോന്നിനും ഓരോ ts വലത്തിനൊപ്പം ആവർത്തിക്കാം അതിനാൽ അതിനാലാണ് ഇവയെ ടെസ്റ്റിംഗ് ഫംഗ്ഷനുകൾ എന്ന് വിളിക്കുന്നത് ഞാൻ അവയിൽ ഓരോന്നിനും ഒന്നിനുപുറകെ ഒന്നായി സമവാക്യം പരീക്ഷിക്കുന്നു എനിക്ക് n സമവാക്യങ്ങൾ ശരിയായി ലഭിക്കുന്നു അതിനാൽ മൊത്തത്തിലുള്ള മാട്രിക്സ് സമവാക്യങ്ങൾ എനിക്ക് Ax b പോലെയുള്ള ഒന്ന് ലഭിക്കുമെന്ന് കരുതുന്നത് അതാണ് എനിക്ക് ലഭിക്കുന്നത് അപ്പോൾ എന്റെ Amn എന്തിന് തുല്യമായിരിക്കും അതിനാൽ വരികൾ വ്യത്യസ്ത വരികൾ വഴി വരുന്ന വരികൾ എന്തൊക്കെയാണ് വ്യത്യസ്തമായത് തിരഞ്ഞെടുത്ത് സൃഷ്ടിക്കുന്നത് വ്യത്യസ്തമായ ടെസ്റ്റിംഗ് ഫംഗ്ഷൻ തിരഞ്ഞെടുക്കുന്ന ഓരോന്നും നിങ്ങൾക്ക് ഒരു പുതിയ സമവാക്യം നൽകുന്നു അതിനാൽ ഓരോ പുതിയ സമവാക്യവും ഒരു പുതിയ വരിയോ നിരയോ ആണ് വിദ്യാർത്ഥി വരി വരി വ്യക്തമാണ് അപ്പോൾ ഒരു ചോദ്യം ϕ അതെ അതിനാൽ mth ടെസ്റ്റിംഗ് ഫംഗ്ഷൻ ശരിയായി തിരഞ്ഞെടുക്കുമ്പോൾ Amn mth വരി വരും എനിക്ക് nth കോളം എന്ത് നൽകും nth അടിസ്ഥാന അവകാശം അതിനാൽ വാസ്തവത്തിൽ സ്ലൈഡുകളിൽ നിങ്ങൾക്കായി Amn ഇതിനകം എഴുതിയിട്ടുണ്ട് അതിന്റെ tm Lbn mnth മൂലകമാണ് എന്താണ് bm അതിനാൽ b എന്നത് f1 f2 ഉള്ള ഒരു കോളം വെക്ടറാണ് fN വരെ ഇത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ നിങ്ങൾ ശരിയാണ് അതിനാൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഈ b എന്ന് വിളിക്കരുത് നമുക്ക് അതിനെ Ax c എന്ന് വിളിക്കാം അതിനാൽ നമ്മൾ പറയും cm fm കൂടാതെ ഈ നൊട്ടേഷൻ ദുരുപയോഗം നിങ്ങൾ തിരയുന്ന പദമാണ് അതിനാൽ എനിക്ക് എന്റെ മാട്രിക്സ് സമവാക്യം Ax c ലഭിച്ചു നമ്മൾ ഇത് ചെയ്തു അതിനാൽ ഇതിനെ ഔപചാരികമായി മൊമെന്റുകളുടെ രീതി എന്ന് വിളിക്കുന്നു എല്ലാ കഠിനാധ്വാനങ്ങളും എവിടെ സംഭവിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു അതെന്താണ് നമ്മൾ ഇത് ചർച്ച ചെയ്യാൻ വളരെക്കാലം ചെലവഴിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് കഠിനമായ ജോലി എവിടെയാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നു വിദ്യാർത്ഥി കൈമാറ്റം കണ്ടെത്തുന്നു b കണ്ടെത്തുന്നു വിദ്യാർത്ഥി രൂപാന്തരപ്പെടുത്തൽ b b യും നിങ്ങളുടെ ഉത്തരവും രൂപാന്തരപ്പെടുത്തുന്നു വിദ്യാർത്ഥി bn കണ്ടെത്തുന്നു വിദ്യാർത്ഥി ഇല്ല bn ഉം tn ഉം ഞാൻ ലളിതമായ എന്തെങ്കിലും തിരഞ്ഞെടുക്കും എനിക്ക് പൾസ് ബേസിസ് ഫംഗ്ഷനും തിരഞ്ഞെടുക്കാം എനിക്ക് പൾസ് ബേസിസ് ഫംഗ്ഷൻ തിരഞ്ഞെടുക്കാം അതിനാൽ b യും t യും എളുപ്പമാണ് വിദ്യാർത്ഥി സമവാക്യം പരിഹരിക്കുന്നു സമയം കാണുക 0954 സമവാക്യം പരിഹരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റം അല്ലെങ്കിൽ സമവാക്യങ്ങൾ രൂപീകരിച്ചാൽ MATLAB ചെയ്യും Ab അല്ലെങ്കിൽ പൂർത്തിയാക്കി നിങ്ങൾക്ക് അതിൽ ഗവേഷണം നടത്താം പക്ഷേ കമ്പ്യൂട്ടേഷണൽ ഇലക്ട്രോമാഗ്നെറ്റിക്കിലെ ഒരുതരം പ്രധാന ജോലി ആ ശ്രമം എവിടെയാണ് വരാൻ പോകുന്നത് L ഒരു സങ്കീർണ്ണമായ ഓപ്പറേറ്ററായതിനാൽ ഈ ഇന്നർ പ്രോഡക്ട് ഇവിടെയുണ്ട് നിങ്ങൾ L ൽ ഓപ്പറേറ്റ് ചെയ്യണം തുടർന്ന് bn എടുക്കണം തുടർന്ന് tn ഉള്ള ഒരു ഇന്നർ പ്രോഡക്ട് എടുക്കണം അതിനാൽ ഇവിടെ ഇത് വളരെ ഒതുക്കമുള്ളതായി തോന്നുന്നു ഇത് ഇവിടെ കൂടുതലൊന്നും ചെയ്യാനില്ല വിദ്യാർത്ഥി സാറിന് കഴിയും ശരി നമുക്ക് നോക്കാം അതിനാൽ നിങ്ങളുടെ പക്കലുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ സംഖ്യാ സംയോജനത്തിൽ ഒരു മൊഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഞാൻ hk പോലെ എന്തെങ്കിലും എഴുതുമ്പോൾ ഞാൻ ഇതുപോലെ ഉള്ളിലെ പ്രോഡക്ട് എഴുതുമ്പോൾ എന്താണ് ചെയ്യുന്നത് അതിനർത്ഥം വിദ്യാർത്ഥി ഇന്റഗ്രൽ അത് ഇന്റഗ്രൽ ആണ് അതിനാൽ ഇത് ചില വ്യക്തമാക്കിയതിനേക്കാൾ hr′kr′dr′ ന്റെ ഒരു അവിഭാജ്യമായിരിക്കും വിദ്യാർത്ഥി ഡൊമെയ്ൻ ഡൊമെയ്ൻ അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ ഇന്നർ പ്രോഡക്ട് നിങ്ങളെ എത്തിക്കാൻ ഇതും ഇതും സംയോജിപ്പിക്കേണ്ടതുണ്ട് ഇത് തന്നെ അതിനുള്ളിലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യത്യാസങ്ങളുള്ള ഒരു അവിഭാജ്യ ഘടകമായേക്കാം അതിനാൽ ഇവിടെയാണ് എല്ലാ CEM പ്രവർത്തനങ്ങളും ശരിയാകുന്നത് മറ്റൊരു തരത്തിൽ ഞാൻ എന്നെക്കാൾ മുന്നിലാണ് എന്നാൽ ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു വെല്ലുവിളി ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ ഗ്രീനിന്റെ ഫംഗ്ഷനുകൾ ശരിയായി കണ്ടു എന്നതാണ് ഗ്രീനിന്റെ ഫംഗ്ഷനുകൾ ഇവിടെ എവിടെയെങ്കിലും L ഓപ്പറേറ്ററിലോ മറ്റെന്തെങ്കിലുമോ ദൃശ്യമാകും ഈ ഗ്രീനിന്റെ ഫംഗ്ഷനുകൾക്ക് ഏകത്വമുണ്ട് അതിനാൽ ഏകത്വങ്ങളുടെ സാന്നിധ്യത്തിൽ സമന്വയിപ്പിക്കുന്നതിൽ നാം വളരെ ശ്രദ്ധാലുവായിരിക്കണം അതിനാൽ അവ ചില വെല്ലുവിളികളാണ് അവർ പറയുന്നത് പോലെ നമുക്ക് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ഇടാം അതിനാൽ നമ്മൾ ഇതിനകം എന്താണ് ചെയ്തതെന്ന് നോക്കാം ഇത് നമുക്ക് ശരിയാക്കിയ സമവാക്യമായിരുന്നു പുതിയ ഭാഷയിലെ അവിഭാജ്യ സമവാക്യം വിവേചനരഹിതമാക്കുന്നതിനുള്ള നമ്മുടെ നിഷ്കളങ്കമായ സമീപനം ഇപ്പോൾ വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ആദ്യ ഘട്ടം അടിസ്ഥാനമായിരുന്നു അടിസ്ഥാനത്തിനായി ഞാൻ എന്താണ് തിരഞ്ഞെടുത്തത് അതായത് ഞാൻ എന്റെ വേരിയബിൾ ρ ആയിരുന്നു അതിനാൽ ഞാൻ എഴുതിയത് ρr′ അടിസ്ഥാന ഫംഗ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ എഴുതിയത് ശരിയാണെന്ന് ഞാൻ അതിനെ വിളിച്ചു നമുക്ക് കുറച്ച് ρn bnr′ എന്ന് പറയട്ടെ bn ഇതുപോലെയാണ് ഇത് എന്റെ r′1 0 ആയിരുന്നു എന്റെ bnr′ വലത് nth സെഗ്മെന്റ് അതിനാൽ അത് ഘട്ടം 1 ആയിരുന്നു ഞാൻ അടിസ്ഥാന പ്രവർത്തനം ശരിയായി ചെയ്തു ഞാൻ അതിനെ ശരിക്കും അടിസ്ഥാനം എന്ന് വിളിച്ചില്ല ഞാൻ അർത്ഥമാക്കുന്നത് ഞാൻ അതിനെ മൊമെന്റുകളുടെ രീതി എന്ന് വിളിച്ചിട്ടില്ല എന്നാണ് എന്നാൽ ഞാൻ ഒരു അടിസ്ഥാന ഫംഗ്ഷൻ തിരഞ്ഞെടുത്തു അപ്പോൾ ഞാൻ എന്തുചെയ്യും ഞാൻ ഒരു ടെസ്റ്റിംഗ് ഫംഗ്ഷൻ തിരഞ്ഞെടുത്തോ വിദ്യാർത്ഥി എന്നാൽ അത് ഡെൽറ്റയാണ് ഞാൻ യഥാർത്ഥത്തിൽ ഒരു ടെസ്റ്റിംഗ് ഫംഗ്ഷൻ തിരഞ്ഞെടുത്തില്ല ഈ y അക്ഷത്തിൽ വ്യത്യസ്ത മൂല്യങ്ങളിൽ ഞാൻ വലതുഭാഗം വിലയിരുത്തി സിലിണ്ടർ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വ്യത്യസ്തമായ വ്യതിരിക്ത പോയിന്റുകൾ തിരഞ്ഞെടുത്തു ഞാൻ ഒരു ടെസ്റ്റിംഗ് ഫംഗ്ഷൻ ശരിയായി തിരഞ്ഞെടുത്തില്ല അതിനാൽ ടെസ്റ്റിംഗ് ഫംഗ്ഷൻ ഒരു ഡെൽറ്റ ഫംഗ്ഷന്റെ അനലോഗ് ശരിയാണെന്ന് പ്രേക്ഷകരിൽ നിന്ന് ശരിയായ ഉത്തരം ലഭിച്ചു അതിനാൽ എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ഈ സമവാക്യത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന വലതുഭാഗം എന്തായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയ ഈ fm യഥാർത്ഥത്തിൽ എങ്ങനെ വന്നു tm ന്റെ ഒരു ആന്തരിക ഉൽപ്പന്നം f കൊണ്ട് എടുത്തപ്പോൾ വന്നതാണ് അങ്ങനെയാണ് ഞാൻ ശരിയാക്കിയത് ഇപ്പോൾ ഞാൻ എന്താണ് ടെസ്റ്റിംഗ് ഫംഗ്ഷൻ പറയുന്നത് എനിക്ക് എങ്ങനെ V ലഭിക്കും വിദ്യാർത്ഥി ഇന്റഗ്രൽ V അതിനാൽ എനിക്ക് V എന്നത് ന് തുല്യമാണ് അതിനാൽ ഇതൊരു ഇന്നർ പ്രോഡക്ട് എന്റെ ടെസ്റ്റിംഗ് ഫംഗ്ഷനുകൾ tm ഒന്നുമല്ല മറിച്ച് ഒരു ഡെൽറ്റ ഫംഗ്ഷൻ ആണെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ളതോ അലസമായതോ ആയ കാര്യം ഇതാണ് അതിനാൽ നമ്മൾ ഇത് ചെയ്ത ഈ രീതിയെ പൾസ് ബേസിസ് ഡെൽറ്റ ടെസ്റ്റിംഗ് എന്നും വിളിക്കുന്നു ചില സ്ഥലങ്ങൾ ഇതിനെ ഡെൽറ്റ ടെസ്റ്റിംഗ് എന്ന് വിളിക്കില്ല അവർ അതിനെ പോയിന്റ് ടെസ്റ്റിംഗ് എന്ന് വിളിക്കും വിദ്യാർത്ഥി അതിനാൽ സർ ഇവ ടെസ്റ്റിംഗ് ആണ് അല്ല അതാണ് അതിനാൽ നമ്മൾ ചെയ്തത് പോലെയുള്ള അവിഭാജ്യ സമവാക്യം ഡിസ്ക്രിറ്റൈസ് ചെയ്യുന്നത് ടെസ്റ്റിംഗ് ഫംഗ്ഷനായി ഒരു ഡെൽറ്റ ഫംഗ്ഷൻ തിരഞ്ഞെടുക്കുന്നതിനുള്ള നിമിഷങ്ങളുടെ രീതിയുടെ ഭാഷയിൽ തുല്യമാണ് അതിനാൽ ഇവിടെ ഇത് യഥാർത്ഥത്തിൽ ഒരു ഫംഗ്ഷൻ അല്ല ഇതൊരു സാമാന്യവൽക്കരിച്ച ഫംഗ്ഷനാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ എനിക്ക് fm നെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല അതിനാൽ ഞാൻ തിരികെ പോയി fm വലത്തിന് മറ്റൊരു നിർവചനം എഴുതി കാരണം എനിക്ക് ഒരു ഡെൽറ്റ ഫംഗ്ഷന്റെ മൂല്യം ഒരു ഘട്ടത്തിൽ നിർവചിക്കാൻ കഴിയില്ല അത് നിർവചിക്കാത്ത അവകാശമാണ് അതിനാൽ ഇതിനുള്ള മറ്റൊരു വാക്ക് പോയിന്റ് കൊളോക്കേഷൻ രീതി എന്ന് വിളിക്കുന്നു ഈ രീതി വളരെക്കാലമായി ഉണ്ടെന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാം എല്ലാവരും വന്ന് വ്യത്യസ്തമായ പേര് നൽകി അതിനാൽ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ കണ്ടുമുട്ടിയാൽ അവർ ഒരേ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഇത് നമ്മൾ ചെയ്തതുപോലെയാണ് മൊഡ്യൂളിന്റെ തുടക്കത്തിൽ ഞാൻ ചോദിച്ച യഥാർത്ഥ ചോദ്യത്തിലേക്ക് ഇത് കൂടുതൽ സങ്കീർണ്ണമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പകരം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് കൂടുതൽ കൃത്യത വേണമെങ്കിൽ പകരം എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഡെൽറ്റ ടെസ്റ്റിംഗ് ഫംഗ്ഷൻ തിരഞ്ഞെടുക്കുന്നില്ലേ അതിനാൽ ഈ പോയിന്റ് ടെസ്റ്റിംഗ് നടത്തുന്നതിനുപകരം എനിക്ക് എന്റെ tm ഇവിടെ തിരഞ്ഞെടുക്കാമായിരുന്നു പൾസ് ബേസിസ് ഫംഗ്ഷൻ ആയി എനിക്ക് tm തിരഞ്ഞെടുക്കാമായിരുന്നു ഇതും ഈ രൂപത്തിലുള്ളതാണെന്ന് എനിക്ക് പറയാം എനിക്ക് ഇത് തിരഞ്ഞെടുക്കാമായിരുന്നു വിദ്യാർത്ഥി അത് അപ്പോൾ പിന്നെയും ചോദ്യം ഇവ രണ്ടും ഒരേ പോലെ സൂക്ഷിക്കുന്നതിൽ എന്തെങ്കിലും നേട്ടമുണ്ടോ എന്നതാണ് വിദ്യാർത്ഥി ഇത് യഥാർത്ഥത്തിൽ ഇത് ഗണിതത്തെ കുറച്ചുകൂടി എളുപ്പമാക്കുന്നു നിങ്ങൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല വ്യത്യസ്ത ടെസ്റ്റിംഗ് ഫംഗ്ഷനുകൾ ഉള്ള മറ്റൊരു കൂട്ടം ബേസിസ് ഫംഗ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം വിദ്യാർത്ഥി അതിനാൽ അത് അവിടെ ഉണ്ടാകും അൽപ്പം എളുപ്പമാണ് ഞാൻ അർത്ഥമാക്കുന്നത് ലളിതവൽക്കരണം കുറച്ച് എളുപ്പമാകുമെന്നാണ് എന്നാൽ നിങ്ങൾ വ്യത്യസ്തമായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് പരിഹരിക്കാനാകാത്തതോ മറ്റെന്തെങ്കിലുമോ ആയിത്തീരുന്നില്ല അവസാനമായി നിങ്ങൾ ഈ സംയോജനം ചെയ്യാൻ പോകുന്നില്ല എന്റെ കൈയിലാണ് നിങ്ങൾ എന്തെങ്കിലും കോഡ് അപ്പ് ചെയ്യാൻ പോകുന്നത് അതിനാൽ ഇത് ഒറ്റത്തവണ പരിശ്രമമാണ് ബേസിസ് ഫംഗ്ഷനുകളിലെ ടെസ്റ്റിംഗിന്റെ വ്യത്യസ്ത ചോയ്സുകൾ നിങ്ങൾക്ക് വ്യത്യസ്ത കൃത്യത നൽകുന്നു നിങ്ങൾ ടെസ്റ്റിംഗും ബേസിസ് ഫംഗ്ഷനുകളും ഒരുപോലെ ആയിരിക്കുമ്പോൾ ചോദ്യം ചോദിക്കപ്പെട്ടതിനാൽ എന്നെക്കാൾ മുന്നിലേക്ക് പോകാൻ ഞാൻ ഒരു പദം കൂടി ഉപയോഗിക്കാൻ പോകുന്നു ഈ രീതിയെ ഗലേർകിൻ രീതി എന്ന് വിളിക്കുന്നു അതിന്റെ വ്യക്തിയുടെ പേരിലാണ് ഗലേർകിൻ എന്ന പേര് നൽകിയിരിക്കുന്നത് അതിനാൽ ഗലേർകിന്റെ രീതി പ്രയോഗിച്ചുവെന്ന് നിങ്ങൾ എവിടെയെങ്കിലും വാക്ക് വായിക്കുകയാണെങ്കിൽ അതിനർത്ഥം ടെസ്റ്റിംഗ് ഫംഗ്ഷനും ബേസിസ് ഫംഗ്ഷനും അവ സമാനമായിരിക്കാം അതിനാൽ അവർ പൾസ് ബേസിസ് ഫംഗ്ഷൻ ആയിരിക്കണമെന്നില്ല അവർക്ക് മറ്റെന്തെങ്കിലും നന്നായി ശ്രമിക്കാമായിരുന്നു അതിനാൽ അത് നിങ്ങളുടേതാണ് അതൊരു ഗലേർകിന്റെ Galerkin's രീതിയാണ് അത് പരിമിതമായ മൂലക രീതികളിലും വളരെ ജനപ്രിയമാണ്